ഓപ്പറേറ്റിംഗ് പോയിന്റ് ശരിയായി സജ്ജീകരിക്കുന്നത് പോലെയുള്ള ബയാസിങ് ക്രമീകരണങ്ങൾ നമ്മുടെ ആംപ്ലിഫയർ പൂർത്തിയാക്കിയിട്ടുണ്ട് ആ സർക്യൂട്ടാണ് നിങ്ങളിവിടെ കാണുന്നത് എന്നാൽ തീർച്ചയായും ഇത് നമ്മൾ ആരംഭിച്ചതിൽ നിന്ന് അൽപം വ്യത്യസ്തമാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടിയിരുന്നത് ഒരു MOS ട്രാൻസിസ്റ്റർ ആയിരുന്നു ഗേറ്റ് സോഴ്സിനു കുറുകേ നമുക്ക് മൂന്ന് വോൾട്ട് പ്ലസ് Vs ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഓപ്പറേറ്റിംഗ് പോയിന്റ് വോൾട്ടേജ് പ്ലസ് Vs ഉണ്ടായിരിക്കണം RL ഡ്രെയിനിനും സോഴ്സിനും കുറുകേ ബന്ധിപ്പിക്കണം തീർച്ചയായും ഇൻപുട്ട് സോഴ്സ് നൽകുന്നത് ഈ Vs ഉം Rs ഉം ആണ് തീർച്ചയായും ഇതിൽ കുറച്ച് ബാറ്ററി പവർ ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ കാര്യത്തിൽ ഇത് 23 വോൾട്ടുകളുടെ VDD യാണ് പക്ഷേ നമുക്ക് ഇവിടെ വേറെ ചിലത് കൂടി ഉണ്ട് ഈ R1 ഇവിടെയുണ്ട് R2 അവിടെയുണ്ട് ഇത് RD ആണ് ട്രാൻസിസ്റ്ററിനെ ശരിയായി ബയാസ് ചെയ്യിക്കുന്നതിനും ഗേറ്റിൽ ഉചിതമായ ബയാസ് വാല്യൂ ഉള്ള ഇൻപുട്ട് സിഗ്നൽ ചേർക്കുന്നതിനും നമുക്ക് ഇവയെല്ലാം ആവശ്യമാണ് സാച്ചുറേഷൻ മേഖലയിൽ ട്രാൻസിസ്റ്റർ നിലനിർത്തുന്നതിന് ശരിയായ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് സ്ഥാപിക്കാൻ ഈ RD യും ആവശ്യമാണ് അതിനാൽ ഈ സർക്യൂട്ട് നമ്മൾ ആരംഭിച്ചതിൽ നിന്ന് അൽപ്പം വ്യത്യസ്തമാണ് നമുക്ക് ചില അധിക ഘടകങ്ങളുണ്ട് നമ്മൾ ഇത് വിശകലനം ചെയ്യുകയും അത് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടോ എന്ന് കാണുകയും വേണം വാസ്തവത്തിൽ ആരെങ്കിലും നമുക്ക് ഈ സർക്യൂട്ട് തന്നിട്ടുണ്ടെന്നും അത് നമുക്ക് വിശകലനം ചെയ്യേണ്ടതുണ്ടെന്നും നമുക്ക് ഇപ്പോൾ അനുമാനിക്കാം നമ്മൾ അത് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് വിശകലനം ചെയ്യുന്നു തുടർന്ന് ഇൻക്രിമെന്റൽ പിക്ചർ വിശകലനം ചെയ്യുന്നു ഇതൊക്കെയാണ് നിങ്ങൾ അപരിചിതമായ ഒരു സർക്യൂട്ട് കണ്ടാൽ ചെയ്യുന്നത് അതിനാൽ ഇത് ആ രീതിയിലും ഒരു പരിശീലനമാണ് അതിനാൽ ആദ്യം ഈ പ്രത്യേക സർക്യൂട്ടിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് നോക്കാം നമ്മുടെ കാര്യത്തിൽ ഓപ്പറേറ്റിംഗ് പോയിൻറ് എന്നാൽ dc ഓപ്പറേറ്റിംഗ് പോയിന്റ് ആണ് അതിനാൽ ഇതിനർത്ഥം സിഗ്നൽ സോഴ്സുകളാണ് നമ്മുടെ സർക്യൂട്ടിലേക്ക് ഇൻക്രിമെന്റുകൾ അവതരിപ്പിച്ചത് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്നാൽ ആ പോയിന്റിലാണ് നിങ്ങൾ പരിഹാരം കണ്ടെത്തുന്നതെന്ന് ഓർമ്മിക്കുക നമ്മുടെ കാര്യത്തിൽ നമ്മൾ സിഗ്നലുകളൊന്നും പ്രയോഗിക്കാത്തപ്പോൾ നമ്മുടെ ആംപ്ലിഫയർ ക്യുസെന്റോ ഐഡിയലോ ആണെന്ന് നമ്മൾ കരുതുന്നു അവിടെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് കണക്കാക്കുന്നത് പിന്നീട് സിഗ്നൽ പ്രയോഗിക്കുമ്പോൾ സിഗ്നലിനെ ഒരു ഇൻക്രിമെന്റായി നമ്മൾ കണക്കാക്കുന്നു സിഗ്നൽ സോഴ്സ് പൂജ്യമായി സജ്ജമാക്കി അതിനാൽ നമ്മുടെ കാര്യത്തിൽ നമുക്ക് ഒരൊറ്റ സിഗ്നൽ സോഴ്സ് ആണുള്ളത് അതിനാൽ ഈ Vs പൂജ്യമായിരിക്കണം ഈ വോൾട്ടേജ് സോഴ്സ് ഒരു ഷോർട്ട് സർക്യൂട്ടായി മാറണം സിഗ്നൽ സോഴ്സ് ആയി നമുക്ക് കറൻറ് സോഴ്സ് ഉണ്ടെങ്കിൽ അത് ഒരു ഓപ്പൺ സർക്യൂട്ടായി മാറും കൂടാതെ ഇത് dc ആയതിനാൽ കപ്പാസിറ്ററുകൾ ഓപ്പൺ സർക്യൂട്ടും ഇൻഡക്റ്ററുകൾ ഷോർട്ട് സർക്യൂട്ടും ആകും ഇപ്പോൾ നമ്മുടെ കാര്യത്തിൽ നമ്മൾ ഒരു ഇൻഡക്ടറുകളും ഉപയോഗിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്കത് സാധിക്കും നിങ്ങൾ dc ഓപ്പറേറ്റിംഗ് പോയിന്റിനായി ചെയ്യുകയാണെങ്കിൽ അവ ഷോർട്ട് സർക്യൂട്ടുകളായി മാറും കപ്പാസിറ്ററുകൾ ഓപ്പൺ സർക്യൂട്ടുകളായും മാറും അതിനാൽ ഈ പ്രത്യേക സർക്യൂട്ടിനായി നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഈ C1 ഒരു ഓപ്പൺ സർക്യൂട്ടായി മാറുന്നു C2 ഒരു ഓപ്പൺ സർക്യൂട്ടായി മാറുന്നു അതിനാൽ ഇത് ഫലപ്രദമായി സർക്യൂട്ടിന്റെ ഈ ഭാഗത്ത് നിന്നു സോഴ്സും ലോഡും ഇല്ലാതാക്കുന്നു പിന്നെ നിങ്ങൾ എന്തുചെയ്യും നിങ്ങൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് അനാലിസിസ് നടത്തുക ഈ വോൾട്ടേജ് ഡിവൈഡറിനു കുറുകേ നമുക്ക് 23 വോൾട്ട് ഉണ്ട് അതിനാൽ ഇവിടെ നമുക്ക് 23 വോൾട്ട് ഗുണിക്കണം R2 R1 എന്ന അനുപാതം പ്ലസ് R2 എന്ന് ലഭിക്കും ഡിസൈൻ പ്രകാരം നമ്മൾ ഈ മുഴുവൻ കാര്യങ്ങളും മൂന്ന് വോൾട്ടിന് തുല്യമാക്കി അതിനാൽ ഗേറ്റിനും സോഴ്സിനും കുറുകെ നമുക്ക് മൂന്ന് വോൾട്ട് ഉണ്ട് വീണ്ടും നിങ്ങൾ വിശകലനം നടത്തുമ്പോൾ ഈ ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ അല്ലെങ്കിൽ ട്രയോഡ് മേഖലയിലാണോ എന്ന് നിങ്ങൾക്ക് അറിയില്ല ഇപ്പോൾ എനിക്ക് മുമ്പു കിട്ടിയിരുന്ന മൂല്യങ്ങൾ ഇടാം RD നമ്മൾ നൂറു കിലോ ഓം ആയി എടുത്തു ഇപ്പോൾ ഇത് വിശകലനം ചെയ്യണമെങ്കിൽ രണ്ട് സാധ്യതകൾക്ക് നിങ്ങൾ ഇടം നൽകണം ഇത് ട്രയോഡ് മേഖലയിലോ അല്ലെങ്കിൽ സാച്ചുറേഷൻ മേഖലയിലോ ആകാം രണ്ടും പരീക്ഷിച്ച് സ്ഥിരമായി വരുന്നതെന്താണെന്ന് കാണുക അതിനാൽ ഇത് സാച്ചുറേഷൻ മേഖലയിലാണെന്ന് ഞാൻ അനുമാനിക്കുന്നു വീണ്ടും ട്രാൻസിസ്റ്ററിന്റെ കോൺസ്റ്റന്റ്സ് കണക്കിലെടുക്കുമ്പോൾ കറൻറ് ഫാക്ടർ നൂറു മൈക്രോ ആമ്പിയർ പെർ വോൾട്ട് സ്ക്വയറും ത്രെഷോൾഡ് വോൾട്ടേജ് ഒരു വോൾട്ടും ആണ് ഇത് സാച്ചുറേഷനിൽ ആണെങ്കിൽ ഇതിലെ കറൻറ് 200 മൈക്രോ ആമ്പിയറുകളായിരിക്കും ഈ 200 മൈക്രോ ആമ്പിയറുകൾ ശരിക്കും ഒഴുകുന്നുവെങ്കിൽ അത് ഈ RD യിലൂടെയും അതിനു ചുറ്റും ഒഴുകും ഇത് നിങ്ങൾക്ക് 200 മൈക്രോ ആമ്പിയർ തവണ 100 കിലോ ഓം ഡ്രോപ്പ് നൽകും അത് 20 വോൾട്ട്സ് ആണ് ഇപ്പോൾ നിങ്ങൾ സ്ഥിരത പരിശോധിക്കുക നമുക്ക് ഇവിടെ 23 വോൾട്ട് ഉണ്ട് RD ക്ക് കുറുകേ 20 വോൾട്ട് ഉണ്ട് അതിനാൽ ഈ MOS ട്രാൻസിസ്റ്ററിലുടനീളം നമുക്ക് 3 വോൾട്ട് ഉണ്ട് ഇപ്പോൾ ഇത് സാച്ചുറേഷൻ അല്ലെങ്കിൽ ട്രയോഡ് മേഖലയിലാണോ എന്ന് പരിശോധിക്കുക അതിനാൽ ഇത് VDS ആണ് VDS മൂന്ന് വോൾട്ട് ആണ് ഇത് VGS നേക്കാൾ വലുതായിരിക്കണം അത് 3 വോൾട്ട്സ് VT ആണ് ഇത് ഒരു വോൾട്ട് ആണ് അതിനാൽ വ്യക്തമായും ഇത് നിറവേറ്റുന്നു അതിനാൽ ട്രാൻസിസ്റ്റർ സാച്ചുറേഷനിൽ ആണ് അതുകൊണ്ട് എല്ലാം നല്ല നിലയിലാണ് ഈ ആംപ്ലിഫയർ രൂപകൽപ്പന ചെയ്യുമ്പോൾ അത് സാച്ചുറേഷനിൽ ആണെന്ന് ഞാൻ ഉറപ്പുവരുത്തിയിരുന്നു എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അപരിചിതമായ ഒരു സർക്യൂട്ട് കിട്ടിയാൽ നിങ്ങൾ എല്ലാ സാധ്യതകളും പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ ഇതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് കണക്കുകൂട്ടലുകളിൽ ഉള്ളത് അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് ഈ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ ഇൻക്രിമെന്റൽ സർക്യൂട്ട് വിലയിരുത്തുകയാണ് അതിനാൽ ഫുൾ സർക്യൂട്ടിൽ നിന്ന് സ്മോൾ സിഗ്നൽ ഇൻക്രിമെന്റൽ ഇക്യുവാലെൻറ് സർക്യൂട്ടിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ എന്തുചെയ്യും ഒരേയൊരു മാറ്റം എല്ലാ ഫിക്സ്ഡ് സോഴ്സ്കളും വർദ്ധക്കാത്തതു ആണ് ഉദാഹരണത്തിന് ഈ പവർ സപ്ലൈ VDD പൂജ്യമായി സജ്ജമാക്കും ഇൻക്രിമെന്റുകൾ നൽകുന്ന എല്ലാ സിഗ്നൽ സോഴ്സ്കളും പൂജ്യമല്ലാത്തതായിരിക്കും അവ ഏത് വാല്യൂ വേണമെങ്കിലും ആകാം എല്ലാ ലീനിയർ എലമെൻറ്സും അതേപടി നിലനിൽക്കും കാരണം ഒരു ലീനിയർ എലമെൻറിന് ഇതേതാണെന്നത് പ്രശ്നമല്ല ഇൻക്രിമെന്റൽ വോൾട്ടേജുകളും കറൻറും തമ്മിലുള്ള ബന്ധം ഒരു ലീനിയർ എലമെൻറിന്റെ മൊത്തം വോൾട്ടേജുകളും കറൻറും തമ്മിലുള്ള ബന്ധത്തിന് തുല്യമാണ് നോൺ ലീനിയർ എലമെൻറ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോൺ ലീനിയർ എലമെൻറ്സ് അതിന്റെ ഇൻക്രിമെന്റൽ ഇക്യൂവാലെൻറ് സർക്യൂട്ട് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുക നമ്മുടെ കാര്യത്തിൽ നമുക്ക് ഈ സമ്പൂർണ്ണ സർക്യൂട്ട് ഉണ്ട് ഇതിൽ നമുക്ക് ഈ ഫിക്സ്ഡ് സോഴ്സ് ഉണ്ട് ഇത് പൂജ്യത്തിലേക്ക് ചുരുങ്ങും അതിനാൽ ഇത് ഒരു ഷോർട്ട് സർക്യൂട്ട് ആയി മാറുന്നു നിങ്ങൾക്ക് ഫിക്സ്ഡ് കറൻറ് സോഴ്സ് ഉണ്ടെങ്കിൽ അവ ഓപ്പൺ സർക്യൂട്ടുകളായി മാറും Vs അതേപടി നിലനിർത്തും കൂടാതെ നമുക്കുള്ള ഒരേയൊരു നോൺ ലീനിയർ എലമെൻറായ ഈ ട്രാൻസിസ്റ്റർ അതിന്റെ ഇൻക്രിമെന്റൽ ഇക്യൂവാലെൻറ് ആയി മാറ്റി സ്ഥാപിക്കും ഇതാണ് VGS നമുക്ക് g m VGS ഉണ്ട് നമ്മുടെ സ്മോൾ സിഗ്നൽ മോഡലിൽ ഇതൊക്കെയാണ് ഉള്ളത് തുടക്കത്തിൽ നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകുകയാണെങ്കിൽ നിങ്ങൾ നോൺ ലീനിയർ എലമെൻറ്സിന്റെ ടെർമിനലുകൾ അടയാളപ്പെടുത്തുക നോൺ ലീനിയർ എലമെൻറിന്റെ ഇൻക്രിമെന്റൽ ഇക്യൂവാലെൻറ് എഴുതിയിട്ട് ഉചിതമായ ടെർമിനലുകളുമായി ബന്ധിപ്പിക്കുക അതിനാൽ ചുരുക്കത്തിൽ ഇൻക്രിമെന്റൽ ഇക്യൂവാലെൻറ് സർക്യൂട്ടിൽ ഇവയാണ് നിങ്ങൾ ഉപയോഗിച്ച കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സും കോൺസ്റ്റന്റ് കറൻറ് സോഴ്സും എല്ലായ്പ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യം വൈദ്യുതി വിതരണത്തിനായി ഉപയോഗിക്കുന്ന വോൾട്ടേജ് സോഴ്സ് ആണ് കൂടാതെ നോൺ ലീനിയർ എലമെൻറ്സ് അവയുടെ സ്മോൾ സിഗ്നൽ ഇക്യൂവാലെൻറ് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുക തീർച്ചയായും ലീനിയർ എലമെൻറ്സ് മാറില്ല അതിനാൽ ഇതെല്ലാമാണ് നമ്മൾ ചെയ്യുന്നത് MOS ട്രാൻസിസ്റ്ററിനന്റെ സ്മോൾ സിഗ്നൽ ഇക്യൂവാലെൻറ് എടുത്ത് ഞാൻ ഈ സർക്യൂട്ട് വീണ്ടും വരയ്ക്കും ഒരു കാര്യം ഇത് ഇൻക്രിമെൻറൽ ഇക്യൂവാലെൻറ് സർക്യൂട്ടിൽ ഗ്രൌണ്ടുമായി ഷോർട്ട് സർക്യൂട്ട് ചെയ്തതാണ് അതിനാൽ ഇതും ഗ്രൌണ്ട് ആണ് സാധാരണയായി ഗ്രൌണ്ട് ഉള്ള സർക്യൂട്ടുകൾ താഴെയാണ് വരയ്ക്കുക അത് തന്നെയാണ് ഞാൻ ഇതിലും ചെയ്യാൻ പോകുന്നത് അതിനാൽ ഞാൻ ഇത് വീണ്ടും വരയ്ക്കട്ടെ നമുക്ക് R2 ഉണ്ട് ഈ പോയിന്റ് മുതൽ ഗ്രൌണ്ട് വരെ ഇൻക്രിമെൻറൽ ചിത്രത്തിൽ R1 VDD യിലേക്ക് പോകുന്നു അത് ഗ്രൌണ്ടിലേക്ക് പോകും തുടർന്ന് നമുക്ക് MOS ട്രാൻസിസ്റ്റർ ഉണ്ട് ഈ പോയിന്റിനും ഗ്രൌണ്ടിനും ഇടയിലുള്ള VGS ആണ് ഇത് നമുക്ക് അവിടെ നിന്ന് ഗ്രൌണ്ടിലേക്ക് ഇൻക്രിമെന്റൽ സോഴ്സ് g m VGS ഉണ്ട് VDD യിലേക്ക് പോകുന്ന RD യും ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു നമുക്ക് കപ്പാസിറ്റർ C2 ഉണ്ട് കൂടാതെ നമുക്ക് RL ഉം ഉണ്ട് അതിനാൽ ഇതാണ് സ്മോൾ സിഗ്നൽ ഇൻക്രിമെന്റൽ ഇക്യൂവാലെൻറ് സർക്യൂട്ട് ഇപ്പോൾ കപ്പാസിറ്ററുകൾ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ടെന്ന് ശ്രദ്ധിക്കുക ഞാൻ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് സ്മോൾ സിഗ്നൽ ഇൻക്രിമെന്റൽ ഇക്യൂവാലെൻറ് സർക്യൂട്ട് കപ്പാസിറ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ലീനിയർ എലമെൻറ്സും അതേപടി നിലനിൽക്കുന്നു ഇപ്പോൾ ഞാൻ ഇത് ഊന്നിപ്പറയാൻ കാരണം ചിലപ്പോൾ ഇൻക്രിമെന്റൽ ഇക്യൂവാലെൻറ് സർക്യൂട്ടുകളും ac ഇക്യൂവാലെൻറ് സർക്യൂട്ടുകളും തമ്മിൽ ആശയക്കുഴപ്പം ഉണ്ടാകാം എന്നതുകൊണ്ടാണ് ഇവ രണ്ടും വ്യത്യസ്ത കാര്യങ്ങളെ പരാമർശിക്കുന്നു ഇൻക്രിമെന്റൽ ഇക്യൂവാലെൻറിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആകെ ഇൻക്രിമെൻറ്സ് ആണ് കൂടാതെ എല്ലാ നോൺ ലീനിയർ ഘടകങ്ങളെയും അവയുടെ സ്മോൾ സിഗ്നൽ ലീനിയർ ഇക്യൂവാലെൻറ്സ് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു പക്ഷേ ac ഇക്യൂവാലെൻറ് സർക്യൂട്ട് വേറെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു സിഗ്നൽ ഫ്രീക്വൻസി ചില ഒമേഗ നോട്ട് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ സിഗ്നൽ ഫ്രീക്വൻസി ഒമേഗ നോട്ട് ആണെന്നും കപ്പാസിറ്ററുകൾക്ക് വളരെ ചെറിയ റിയാക്റ്റൻസ് ഉണ്ടെന്നും നമുക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അവയെ ഷോർട്ട് സർക്യൂട്ടുകളായി കണക്കാക്കാം വാസ്തവത്തിൽ ഈ സർക്യൂട്ടിൽ അവ ഇങ്ങനെ പെരുമാറണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാൽ അതെല്ലാം ഒരു വ്യത്യസ്ത ഘട്ടമാണ് അതിനാൽ ac ഇക്യൂവാലെൻറ് സർക്യൂട്ടും ഇൻക്രിമെന്റൽ ഇക്യൂവാലെൻറ് സർക്യൂട്ടും തമ്മിൽ ആശയക്കുഴപ്പത്തിലാകരുത് അവ തികച്ചും വ്യത്യസ്തമായ സന്ദർഭത്തിനുള്ളതാണ് ഒരു സ്മോൾ സിഗ്നൽ ഇൻക്രിമെന്റൽ ഇക്യൂവാലെൻറ് സർക്യൂട്ടിൽ ഓരോ കപ്പാസിറ്ററും ഷോർട്ട് ആകണമെന്നില്ല കപ്പാസിറ്ററുകളെ എപ്പോൾ ഷോർട്ട് ആയി കണക്കാക്കണം എന്നതിന്റെ വിശദമായ മാനദണ്ഡം നമ്മളിനി കാണും പക്ഷേ കപ്പാസിറ്ററിന്റെ ഇംപെഡൻസ് കപ്പാസിറ്ററിന്റെ റിയാക്റ്റൻസ് വളരെ ചെറുതാണെങ്കിൽ അതിനെ ഷോർട്ട് ആയി കണക്കാക്കാം അതിനാൽ C1 C2 എന്നിവ വളരെ വലുതാണെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇൻഫിനിറ്റിക്ക് അടുത്ത് എന്നു പറയാം അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് അവയെ ഷോർട്ട് സർക്യൂട്ടുകളായി കണക്കാക്കാൻ കഴിയുന്ന ഫ്രീക്വെൻസിയെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല ഇവിടെ ശരിക്കും അർത്ഥമാക്കുന്നത് സിഗ്നൽ ഫ്രീക്വെൻസി ഒമേഗ നോട്ട് ആണെങ്കിൽ വൺ ബൈ ഒമേഗ നോട്ട് C1 എന്നത് ഒന്നിനേക്കാളും ചെറുതാണ് എന്നതാണ് വൺ ബൈ ഒമേഗ നോട്ട് C2 ഒരു കാര്യത്തേക്കാൾ വളരെ ചെറുതാണ് അവ പിന്നീട് എന്താണെന്ന് നമുക്ക് കാണാം നമ്മൾ ഇതിനകം അവയെ ഏകദേശം വിലയിരുത്തിയിട്ടുണ്ട് പക്ഷേ നമ്മൾ അത് വിശദമായി കാണും അതിനാൽ നിങ്ങൾ ഈ വ്യവസ്ഥകൾ അനുമാനിക്കുകയാണെങ്കിൽ C 1 C2 എന്നിവ ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അല്ലെങ്കിൽ കപ്പാസിറ്റൻസിനെ ഷോർട്ട് സർക്യൂട്ടുകളായി പരിഗണിക്കാൻ നിങ്ങൾ ഫ്രീക്വെൻസി വളരെ വലുതാണെന്ന് കരുതുന്നുവെങ്കിൽ ഇവയെ ഷോർട്ട് സർക്യൂട്ടുകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാം ഞാനത് ചെയ്താൽ ഇതാണ് എനിക്ക് ലഭിക്കുന്ന സർക്യൂട്ട് ഇവിടെ ഇത് സ്മോൾ സിഗ്നൽ സർക്യൂട്ട് മാത്രമല്ല കപ്പാസിറ്ററുകളും വലുതാണെന്ന് അനുമാനിക്കുന്നു